അടുത്ത കുറച്ച് പ്രഭാഷണങ്ങളിൽ ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്ന് വിളിക്കുന്ന അൽഗോരിതം രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള വളരെ ശക്തമായ ഒരു സാങ്കേതികത നമ്മുക്ക് പരിശോധിക്കാം ഇൻഡക്റ്റീവ് നിർവചനങ്ങൾ പരിഗണിക്കുക എന്നതാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗിന്റെ ആരംഭം ഇപ്പോൾ വളരെ ലളിതമായ നിരവധി ഫംഗ്ഷനുകൾ ഉണ്ട് അവ ഇൻഡക്റ്റീവ് ആണ് അതിനാൽ ഗണിതശാസ്ത്രപരമായി n ഫാക്റ്റോറിയൽ n തവണ n മൈനസ് 1 ഫാക്റ്റോറിയൽ ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഫാക്റ്റോറിയലിന്റെ ഒരു ഇൻഡക്റ്റീവ് നിർവചനം നമുക്ക് എഴുതാം അടിസ്ഥാന കേസ് n 0 ഉം ഈ സാഹചര്യത്തിൽ ഫാക്റ്റോറിയൽ 1 ഉം ആണ് അതിനാൽ 0 ന്റെ f 1 ആണ് പൊതുവേ നമുക്ക് 0 നേക്കാൾ വലിയ n ഉണ്ടെങ്കിൽ n ന്റെ f നൽകുന്നത് n തവണ n മൈനസ് 1 ന്റെ f നൽകുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ചെറിയ ഇൻപുട്ടിൽ പ്രയോഗിച്ച അതേ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ n ന്റെ ഫാക്റ്റോറിയൽ നമ്മൾ പ്രകടിപ്പിക്കുന്നു ഇപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഡക്റ്റീവ് നിർവചനം സംഖ്യാ പ്രശ്നങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ല ഘടനാപരമായ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും അതിനാൽ ഒരു ലിസ്ടിലോ അറേയിലോ ഉള്ള ഒരു ഉദാഹരണത്തിനായി നിങ്ങൾക്ക് ഒരു സബ് ലിസ്ടോ ഒരു സബ് അറേയോ ഒരു ചെറിയ പ്രശ്നമായി പരിഗണിക്കാം അതിനാൽ ഇന്സേര്ഷേൻ സോർട്ട് വിവരിക്കുന്നതിനുള്ള വളരെ ലളിതമായ മാർഗ്ഗം ഇവിടെയുണ്ട് എനിക്ക് n ഘടകങ്ങൾ സോർട്ട് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഇന്സേര്ഷേൻ സോര്ടിനു തീർച്ചയായും അടിസ്ഥാന കേസ് സോർട്ട് ചെയ്യാൻ ഒന്നുമില്ല അല്ലാത്തപക്ഷം രണ്ടാമത്തെ ഘടകത്തിൽ നിന്ന് ആരംഭിക്കുന്ന ബാക്കി ലിസ്റ്റിലേക്ക് നോക്കുകയും അത് ആവർത്തിച്ച് സോർട്ട് ചെയ്യുകയും തുടർന്ന് സോർട്ട് ചെയ്ത ലിസ്റ്റിൽ ആദ്യത്തെ ഘടകം ചേർക്കുകയും ചെയ്യുന്നു അതിനാൽ ഇന്സേര്ഷേൻ സോർട്ട് X 1 മുതൽ X n വരെ ബാധകമാണ് X 2 മുതൽ X n വരെ ആവർത്തിച്ച് സോർട്ട് ചെയ്യുന്നതിൽ X 1 മൂല്യം ഉൾപ്പെടുത്താൻ നമ്മൾ ആവശ്യപ്പെടുന്നു അതിനാൽഒരു ചെറിയ ഇൻപുട്ടിലേക്ക് നിർവചിക്കാൻ ശ്രമിക്കുന്ന അതേ ഫംഗ്ഷൻ വീണ്ടും പ്രയോഗിക്കുന്നു അടിസ്ഥാന കേസിൽ ഏറ്റവും ചെറിയ ഇൻപുട്ട് ശൂന്യമായതിനു ഒരു ഉത്തരം ഉണ്ട് അത് നമ്മുക്ക് എളുപ്പത്തിൽ ലഭ്യമാണ് ആകർഷകമായ നിർവചനങ്ങളുള്ള ആകർഷണങ്ങളിലൊന്ന് വളരെ സ്വാഭാവികമായും ആവർത്തന പ്രോഗ്രാമുകളിലുള്ള വിളവ് എന്നതാണ് അതിനാൽ നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടതില്ല നമുക്ക് ഇൻഡക്റ്റീവ് ഡെഫനിഷൻ ഏതാണ്ട് എടുത്ത് നേരിട്ട് ഒരു പ്രോഗ്രാം ആയി വിവർത്തനം ചെയ്യാൻ കഴിയും ഫാക്റ്റോറിയലിനായുള്ള ഒരു വിവർത്തനം ഇവിടെയുണ്ട് അത് നമുക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഘടനയെ കൂടുതലോ കുറവോ പ്രതിഫലിപ്പിക്കുന്നു അതിനുമുമ്പ് നമുക്ക് 0 ന്റെ f 1 ന് തുല്യവും n ന്റെ f n മൈനസ് 1 ന്റെ n തവണയും തുല്യമാണ് അതിനാൽ നമ്മൾ പറയുന്നു n ആണെങ്കിൽ ഇപ്പോൾ ഇത് കുറച്ചുകൂടി കരുത്തുറ്റതാക്കാൻ ആളുകൾ നൽകുന്ന തരത്തിൽ അവർ നെഗറ്റീവ് സംഖ്യകൾ നൽകുന്നു നമുക്ക് വിവേകപൂർണ്ണമായ ഉത്തരങ്ങൾ ലഭിക്കുന്നു അതിനാൽ 0 ന് തുല്യമായ n പരിശോധിക്കുന്നു നിങ്ങൾക്ക് ഏത് മൂല്യവും പരിശോധിക്കാം 0 അല്ലെങ്കിൽ അതിൽ കുറവ് നമ്മൾ 1 മടക്കി നൽകും മൈനസ് 7 ന്റെ ഒരു ഫാക്റ്റോറിയൽ ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ 1 മടക്കി നൽകാൻ ആഗ്രഹിക്കുന്നു എന്നാൽ പ്രതീക്ഷിക്കുന്ന കാര്യം അവർ 0 ൽ ആരംഭിക്കും തുടർന്ന് അവർ നമുക്ക് ഒരു പോസിറ്റീവ് നമ്പർ നൽകിയാൽ അതിനേക്കാൾ വലുതാണ് 0 തുടർന്ന് നമ്മൾ റികേർസിവ് കീകളിലേക്ക് പോകും അതിനാൽ n മൈനസ് 1 നുള്ള ഫാക്റ്റോറിയൽ n കൊണ്ട് ഗുണിച്ച് ഈ ഉത്തരം നൽകും അതിനാൽ ഈ ഇൻഡക്റ്റീവ് ഡെഫനിഷനും റികേർസിവ് പ്രോഗ്രാമും തമ്മിൽ വളരെ നേരിട്ട് ഒരു ബന്ധം ഉണ്ട് അതാണ് ഒരു ഫംഗ്ഷൻ വിവരിക്കുന്ന കാഴ്ചപ്പാടിൽ നിന്ന് ഇൻഡക്റ്റീവ് ഡെഫനിഷൻ വളരെ ആകർഷകമാക്കുന്നത് കാരണം ഇൻഡക്റ്റീവ് ഡെഫനിഷൻ ഗണിതശാസ്ത്രപരമായി ന്യായീകരിക്കാൻ കഴിയും തുടർന്ന് പ്രോഗ്രാം വ്യക്തമായും ശരിയാണ് കോഡുകളിൽ വ്യക്തമാണ് കാരണം ഇത് ഇൻഡക്റ്റീവ് ഡെഫനിഷന്റെ ആവർത്തനത്തിൽ നിന്ന് നേരിട്ട് പിന്തുടരുന്നു അതിനാൽ അത്തരം ഇൻഡക്റ്റീവ് ഡെഫനിഷനുകൾ ഉപയോഗപ്പെടുത്തുന്നതിനെ ചിലപ്പോൾ ഒപ്റ്റിമൽ സബ് സ്ട്രക്ചർ പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നു അതിനാൽ സങ്കീർണ്ണമായ അടിത്തറയെന്നാൽ അടിസ്ഥാനപരമായി ഒരു ഇൻഡക്റ്റീവ് ഡെഫനിഷനിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഉപ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം സംയോജിപ്പിച്ച് യഥാർത്ഥ പ്രശ്നം പരിഹരിക്കുക എന്നതാണ് അതിനാൽ യഥാർത്ഥ പ്രശ്നത്തിനുള്ള പരിഹാരങ്ങൾ ഉപ പ്രശ്നത്തിലെ പരിഹാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നേടിയത് പ്രത്യേകിച്ചും ഈ ഉപ പ്രശ്നങൾ ഒരേ തരത്തിലുള്ളതാണ് തുടർന്ന് അത് ഒരേ തരത്തിലുള്ള ഉത്തരം കണക്കുകൂട്ടുകയാണ് ഇപ്പോൾ ഫാക്റ്റോറിയൽ പോലുള്ള സംഖ്യാ ചോദ്യത്തിൽ എന്തെങ്കിലും ഒപ്റ്റിമൽ ആണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഉദാഹരണത്തിന് നിങ്ങൾ ഇന്സേര്ഷേൻ സോർട്ട് ചെയ്യുമ്പോഴും നിങ്ങൾ സബ് ലിസ്റ്റ് ക്രമീകരിക്കുമ്പോഴും അതിന്റെ ഫലമാണ് ആ സബ് ലിസ്ടിനായി നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനാൽ ഇത് ഒരു ഉപപ്രശ്നത്തെക്കുറിച്ചുള്ള ഒരു ധാരണയ്ക്ക് കാരണമാകുന്നു n മൈനസ് 1 ന്റെ ഫാക്റ്റോറിയൽ n ന്റെ ഫാക്റ്റോറിയലിന്റെ ഒരു ഫാക്റ്റോറിയൽ ഉപപ്രശ്നമാണ് പക്ഷേ ഇത് n ന്റെ ഫാക്റ്റോറിയലിൽ സംഭവിക്കുന്നു n മൈനസ് 1 ന്റെ ഫാക്റ്റോറിയൽ മാത്രം ആവശ്യമാണ് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ അടിയന്തിരമായി ആവശ്യമുള്ള പ്രശ്നങ്ങളിൽ ചെറിയ ഉപപ്രശ്നം ഉണ്ടാകാം ഉദാഹരണത്തിന് ഫാക്റ്റോറിയൽ n മൈനസ് 2 ഒരു ഉപപ്രശ്നമാണ് n മൈനസ് 3 ഒരു മറ്റൊരു ഉപപ്രശ്നവും അതിനാൽ ഏത് ചെറിയ ഇൻപുട്ടിനെയും യഥാർത്ഥ കാര്യത്തിന്റെ ഉപ പ്രശ്നമായി കണക്കാക്കാം അതുപോലെ യഥാർത്ഥത്തിൽ ഇന്സേര്ഷേൻ സോർട്ട് ചെയ്യുമ്പോൾ ഇതിന് ഇൻപുട്ട് X 1 നൽകുന്നു X n X 2 മുതൽ X n വരെ സോർട്ട് ചെയ്യാൻ നമ്മൾ ആവശ്യപ്പെടുന്നു അതിനാൽ ഈ ഉപ പ്രശ്നം നേരിടുള്ള ആ അവസ്ഥയുമായി നേരിട്ട് ബന്ധം ഉള്ളതാണ് എന്നാൽ സോർടിങ്ങിന്റെ ഒരു ഉപപ്രശ്നമായി സോർട്ട് ചെയ്യുനതിനു Xi മുതൽ Xj വരെയുള്ള ഏത് സെഗ്മെന്റിനെക്കുറിച്ചും പൊതുവായി ചിന്തിക്കാം ഉദാഹരണത്തിന് മെർജ് സോർട്ട് അല്ലെങ്കിൽ ക്യുക്ക് സോർട്ട് പ്രത്യേകിച്ച് മെർജ് സോർട്ട് എന്നിവയിൽ ഇത് സംഭവിക്കും തുടർന്ന് നിങ്ങൾ അറേയെ പകുതിയായും പിന്നീട് ക്വാർട്ടർ ആയും മറ്റും വിഭജിക്കുന്നു അതിനാൽ ഏത് ഘട്ടത്തിലും നമ്മൾ ഒരേ അൽഗോരിതം ചില വിഭാഗങ്ങളിൽ A i മുതൽ A j വരെ പ്രയോഗിക്കുന്നു അതിനാൽ ഗ്രീടി അൽഗോരിതങ്ങളുടെ പശ്ചാത്തലത്തിൽ മുമ്പ് കണ്ട ഒരു പ്രശ്നം നോക്കാം ഇന്റെർവൽ ഷെഡ്യൂളിംഗ് എന്ന് വിളിക്കുന്ന പ്രശ്നം നമുക്ക് പരിശോധിക്കാം അതിനാൽ ഒരു നിശ്ചിത കാലയളവിൽ നമുക്ക് ലഭ്യമായ ഒരു റിസോഴ്സ് ഉണ്ടെന്നും ഇപ്പോൾ ആളുകൾ വന്ന് ഈ റിസോർസിനായി ബുക്കിംഗ് നടത്തുമെന്നും ഇന്റഗ്രേറ്റഡ് ഷെഡ്യൂളിംഗ് പറയുന്നു അതിനാൽ ഈ സെഗ്മെന്റിനിടെ ആരെങ്കിലും ഇത് ബുക്ക് ചെയ്യാൻ ആഗ്രഹിച്ചേക്കാം മറ്റാര്കെങ്കിലും ഈ സെഗ്മെന്റിനിടെ വേണമെന്ന് ആഗ്രഹിക്കാം ഇപ്പോൾ ഈ ഓവർലാപ്പിംഗ് കാര്യങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് രണ്ട് ആളുകൾക്ക് റിസോഴ്സ് നൽകാൻ കഴിയില്ല അതിനാൽ ആരംഭ സമയത്തിനും അവസാനിക്കുന്ന സമയത്തിനുമായി നിങ്ങൾ ഓരോരുത്തരും അഭ്യർത്ഥനകൾ നൽകി നമുക്ക് ഒരു ആരംഭവും അവസാനവും അല്ലെങ്കിൽ ഒരു ഫിനിഷ് സമയവുമുണ്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ അഭ്യർത്ഥനകളിൽ ഏതാണ് നിങ്ങൾക്ക് അനുവദിക്കാമെന്ന് തീരുമാനിക്കുക അതുവഴി പരമാവധി എണ്ണം ബുക്കിംഗ് അനുവദിക്കും ബുക്കിംഗുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം അല്ലാതെ ബുക്കിംഗുകളുടെ ദൈർഘ്യമല്ല ഈ പ്രത്യേക സാഹചര്യത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾ ഒരു ബുക്കിംഗിനെ ബഹുമാനിക്കുമ്പോൾ ഇപ്പോൾ ഒരു ബുക്കിംഗ് മറ്റ് കുറച്ച് ബുക്കിംഗുകളുമായി ഓവർലാപ്പുചെയ്യുന്നുവെങ്കിൽ ഞാൻ ഈ ബുക്കിംഗ് എടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇത് ഇല്ലാതാകും അതിനാൽ ഓവർലാപ്പ് ചെയ്ത ഈ രണ്ട് ബുക്കിംഗുകളും മേലിൽ ഷെഡ്യൂൾ ചെയ്യാൻ കഴിയില്ല കാരണം അവ ചില സമയ ഇടവേളകളിൽ ഇതുമായി പൊരുത്തപ്പെടുന്നു ബുക്കിംഗിന്റെ പ്രശ്നത്തിന്റെ ചില ഉപവിഭാഗങ്ങൾക്കായി അവശേഷിക്കുന്ന ബുക്കിംഗുകൾ അനുവദിക്കുന്നതിനുള്ള ഒരു മാർഗം ഇപ്പോൾ നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട് ബുക്കിംഗിന്റെ ഓരോ സബ് സെറ്റും ഈ കേസിൽ ഒരു ഉപപ്രശ്നമാണ് നമ്മൾ കണ്ട പദ്ധതി ഗ്രീടിയായിരുന്നു അത് നേരത്തെ ഫിനിഷിംഗ് സമയമുള്ള ഒന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു അതിനാൽ അനുവദിക്കാൻ ഇനിയും ലഭ്യമായ എല്ലാ ബുക്കിംഗുകളിലും ഗ്രീടി ആയ ഒരെണ്ണം നമ്മൾ തിരഞ്ഞെടുക്കുന്നു അവയ്ക്കെല്ലാം ഇടയിലൂടെ നോക്കിയാൽ മുമ്പത്തെ ഫിനിഷിംഗ് സമയമായി അവശേഷിക്കുന്നു ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ചേർക്കുമ്പോൾ ഇത് ചില ഉപവിഭാഗങ്ങൾ നൽകുന്ന ചില ബുക്കിംഗുകളെ ഇല്ലാതാക്കും അത് നിങ്ങൾക്ക് ഒരു ഉപപ്രശ്നം നൽകും നിങ്ങൾ ഈ ഉപപ്രശ്നങ്ങൾ പരിഹരിക്കും അതിനാൽ എത്ര ഉപപ്രശ്നങ്ങൾ ഉണ്ട് ഇപ്പോൾ നമുക്ക് N ബുക്കിംഗുകളുണ്ട് ഇതിന്റെ സാധ്യമായ എല്ലാ സബ് സെറ്റുകളും ഒരു ഉപപ്രശ്നമാണ് അതിനാൽ നിങ്ങള്ക്ക് ഒരു എക്സ്പോണൻഷ്യൽ സബ് പ്രശ്നങ്ങളുണ്ട് പൊതുവേ ഉത്തരം ലഭിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും സബ് സെറ്റ് നമുക്ക് ഉണ്ട് അതിനാൽ മികച്ച അലോക്കേഷൻ കണ്ടെത്തുന്നതിന് ഈ എക്സ്പോണൻഷ്യൽ കാര്യങ്ങളെല്ലാം നമ്മൾ തത്വത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് ഇത് പരമാവധി എണ്ണം ബുക്കിംഗുകൾ തൃപ്തിപ്പെടുത്തുന്നു ഇപ്പോൾ ഗ്രീടി ആയ ഒരു ആശയം ചെയ്യുന്നത് ഫലപ്രദമായി ഈ എക്സ്പോണൻഷ്യൽ സ്പെയ്സിനെ ഒരു ലീനിയർ സ്പെയ്സായി വെട്ടിക്കുറയ്ക്കുന്നു കാരണം അത് ചെയ്യുന്നത് തിരഞ്ഞെടുക്കുന്നു അതിനാൽ തുടക്കത്തിൽ 1 മുതൽ N വരെ ബുക്കിംഗ് ഉണ്ട് തുടർന്ന് ഇവയിൽ ചിലത് തിരഞ്ഞെടുക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം ആദ്യകാല ഫിനിഷിംഗ് സമയ ക്രമപ്രകാരം സോർട്ട് ചെയ്തു അതിനാൽ നിങ്ങൾ ആദ്യത്തേത് എടുക്കും തുടർന്ന് നിങ്ങൾ അവിടെ നിന്ന് കുറച്ച് നിരസിക്കും ഇപ്പോൾ അവശേഷിക്കുന്നതിൽ ആദ്യത്തേത് നമ്മൾ തിരഞ്ഞെടുക്കുന്നു നിങ്ങൾ നിങ്ങളിൽ നിന്ന് കൂടുതൽ തള്ളിക്കളയും അതിനാൽ നിങ്ങൾ അവയിൽ എല്ലാ N ഉം അനുവദിക്കും പക്ഷേ ഓരോ തവണയും നിങ്ങൾ 1 ഉൾപ്പെടുത്തുമ്പോൾ നിങ്ങൾ അതിൽ ചിലത് ഒഴിവാക്കും അതിനാൽ തീർച്ചയായും ഒരു ലീനിയർ സ്കാനിൽ നിങ്ങൾ ഉപ പ്രശ്നങ്ങൾ മാത്രം നോക്കും നിങ്ങൾ ഓർഡർ എൻ സബ് പ്രശ്നങ്ങൾ മാത്രം കാണുകയും കണ്ടെത്തുകയും ചെയ്യും നിങ്ങൾ അവകാശപ്പെടുന്നത് അനുയോജ്യമായ ഉത്തരമാണ് അതിനുശേഷം നിങ്ങൾ 2 മുതൽ N വരെയുംഓർഡർ N ഉം ഇത്രയും വലിയ കിഴിവ് ചെയ്യുന്നു ചില ഉപപ്രശ്നങ്ങൾ അബദ്ധവശാൽ പരിശോധിക്കാതെ അവഗണിച്ചോ എന്ന് ചോദിക്കാൻ ഒരു കാരണമുണ്ട് അതിനാൽ നിങ്ങൾക്ക് ഒരു തെളിവ് ആവശ്യമാണ് ഗ്രീടി ആയ ഒരു സ്ട്രാറ്റെജിയിൽ നിങ്ങൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പരിഹാരം ശരിയായിത്തീരുന്നുവെന്ന് തെളിയിക്കേണ്ടതുണ്ട് കാരണം നിങ്ങൾ ശരിക്കും ഒരു വലിയ എണ്ണം നോക്കുന്നില്ല ധാരാളം ഉപ പ്രശ്നങ്ങൾ പരിഗണിക്കുന്നില്ല ഇന്റെർവൽ ഷെഡ്യൂളിംഗ് പ്രശ്നം നമ്മൾ വളരെ ചെറുതായി മാറ്റുന്നുവെന്ന് കരുതുക ഓരോ അഭ്യർത്ഥനയുമായും നമ്മൾ ഒരു ഭാരം ബന്ധപ്പെടുത്തുന്നു ഒരു ഭാരം ഉദാഹരണമായിരിക്കാം ആരെങ്കിലും നൽകാൻ തയ്യാറായ തുക അതിനാൽ ആളുകൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാകാം നമുക്ക് ഒരു ഓഡിറ്റോറിയം ഉണ്ട് പ്രകടനങ്ങൾക്കും മറ്റ് പ്രവർത്തനങ്ങൾക്കുമായി നമ്മൾ പ്രവേശിക്കുന്നു ഇത് ഉപയോഗിക്കാൻ വരുന്ന ആളുകൾ പണം നൽകാൻ തയ്യാറാണ് തീർച്ചയായും ഒരു ഓഡിറ്റോറിയം മാത്രമേ ഉള്ളൂ അതിനാൽ ഒരേ സമയം രണ്ട് ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല ഇപ്പോൾ നമ്മുടെ മുമ്പത്തെ ലക്ഷ്യം നമ്മൾ നൽകിയ ബുക്കിംഗുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ നമുക്ക് മറ്റൊരു മാനദണ്ഡമുണ്ട് അത് ഓരോ വ്യക്തിയും എത്ര പണം നൽകാൻ തയ്യാറാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിനാൽ ഒരു വ്യക്തിക്ക് മാത്രം നൽകിയാലും ആ വ്യക്തി എല്ലാവരേക്കാളും വളരെയധികം പണം നൽകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അനുയോജ്യമാകും അതിനാൽ ആകെ വെയ്റ്റ് വർദ്ധിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം നമ്മുടെ വിഹിതത്തിൽ നിന്ന് കഴിയുന്നത്ര വരുമാനം നേടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുഅത് മൊത്തം ഭാരത്തിൽ നിന്നാണ് ബുക്കിംഗുകളുടെ എണ്ണത്തിൽ നിന്നല്ല അതിനാൽ മുമ്പത്തെ കേസിലെ ഗ്രീടി സ്ട്രാറ്റെജി ഓർക്കുക നമുക്ക് ആദ്യകാല ഫിനിഷ് സമയം വേണം മൂന്ന് അഭ്യർത്ഥനകളുടെ ഈ പ്രത്യേക തിരഞ്ഞെടുപ്പ് നിങ്ങൾ കണ്ടെങ്കിൽ മുമ്പത്തെ ഫിനിഷ് സമയം ഇതായിരിക്കും അതിനാൽ നമ്മൾ ആദ്യം ഇത് എടുക്കും അത് പക്ഷെ നിരസിക്കും കാരണം ആദ്യ അഭ്യർത്ഥന പൂർത്തിയായതിന് ശേഷം മൂന്നാമത്തെ അഭ്യർത്ഥന ആരംഭിക്കുന്നു അതിനാൽ നിങ്ങൾ ഇത് എടുക്കും നമുക്ക് രണ്ട് കീകൾ ലഭിക്കും 3 ൽ 2 ഉം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ചതാണ് അത് അൺ വെയ്റ്റഡ് കീകളിൽ കണ്ടെത്തി പക്ഷേ ഇപ്പോൾ നിർഭാഗ്യവശാൽ നമുക്ക് ഒരു ഭാരം ഉണ്ട് ഈ ഭാരം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ കുറച്ചുകൂടി ബുദ്ധിപൂർവ്വം എന്തെങ്കിലും ചെയ്യണം കാരണം ഇപ്പോൾ ആദ്യത്തേതും മൂന്നാമത്തേതും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ മൊത്തം ഭാരം 2 മാത്രമാണ് അതിനെ ജോലി എന്നല്ല പക്ഷെ ബുക്കിംഗ് എന്ന് വിളിക്കാം 1 പ്ലസ് 3 2 എന്നൊരു ഭാരം നൽകുന്നു അതേസമയം 2 ബുക്കിംഗ് മാത്രം 3 ന്റെ ഭാരം നൽകുന്നു കാരണം അതിന് ഭാരം 3 ഉണ്ട് അതിനാൽ ഈ സാഹചര്യത്തിൽ നമ്മൾ അത് തിരിച്ചറിയണം ഷെഡ്യൂൾ ചെയ്യുന്ന ഒരേയൊരു ശിക്ഷയുടെ പിഴ മറികടക്കാൻ മധ്യ അഭ്യർത്ഥനയ്ക്ക് മതിയായ ഭാരം ഉണ്ട് നമ്മൾ 3 അഭ്യർത്ഥന ഷെഡ്യൂളിൽ നിന്ന് പുറത്തുകടക്കുമെങ്കിലും ചെലവ് പ്രതീക്ഷയിൽ നിന്ന് പരമാവധി പ്രയോജനം നമുക്ക് ലഭിക്കും അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഭാരം കണക്കാക്കാത്ത കേസിനായി നമ്മൾ തെളിയിച്ച ഗ്രീടി സ്ട്രാറ്റെജി ആണ് നിർഭാഗ്യവശാൽ ഇനി ഇത് സാധുതയുള്ളതല്ല അതിനാൽ നമ്മൾ എന്തുചെയ്യും ഗ്രീടി ആയ മറ്റൊരു സ്ട്രാറ്റെജി ഉണ്ടോയെന്നതാണ് ഒരു സ്ട്രാറ്റെജി നമ്മുക്ക് ഗ്രീടി ആയ മറ്റൊരു സ്ട്രാറ്റെജി തിരയാനും നിങ്ങൾ പ്രവർത്തിക്കുമെന്ന് വാദിക്കാനും നമ്മൾ കണ്ടതുപോലെ പ്രവർത്തിക്കുന്നുവെന്ന് വാദിക്കാനും ശ്രമിക്കാം പകരം കുറച്ച് ശ്രമം ആവശ്യമാണ് കാരണം മറ്റേതൊരു സ്ട്രാറ്റെജിയിലൂടെയും നിങ്ങൾക്ക് ലഭിക്കുന്ന ഏതൊരു പരിഹാരത്തേക്കാളും മികച്ചതാണെന്ന് തെളിയിക്കാൻ അത്തരം ചില കാര്യങ്ങളുടെ കൈമാറ്റ വാദം നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട് അടുത്ത കുറച്ച് പ്രഭാഷണങ്ങളിൽ നാം കൂടുതൽ വിശദമായി കാണാൻ പോകുന്ന മറ്റൊരു സമീപനം കാര്യക്ഷമമായി വിലയിരുത്താൻ കഴിയുന്ന കാര്യങ്ങളെ വ്യക്തമായി ശരിയാക്കുന്ന ഒരു ഇൻഡക്റ്റീവ് പരിഹാരം പരീക്ഷിച്ച് നോക്കുക എന്നതാണ് അതിനാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഉത്തമ ഉത്തരം നൽകുന്നുവെന്ന് തെളിയിക്കുന്നതിനുള്ള ഈ ശ്രമമാണ് സംരക്ഷിക്കാൻ പോകുന്നത് നമ്മൾ ഏതെങ്കിലും അർത്ഥത്തിൽ എല്ലാ കേസുകളും നോക്കും പക്ഷേ ഓരോ കേസും ബുദ്ധിപൂർവ്വം നോക്കുന്നു അതിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ പ്രശ്നത്തിനായി നമ്മൾ ഇത് എങ്ങനെ ചെയ്യും കൂടുതൽ നേരിട്ടുള്ള എന്തെങ്കിലും നമുക്ക് ചെയ്യാം തുടർന്ന് അവസാന ഫിനിഷിംഗ് സമയം നോക്കുന്നതിനായി കഴിഞ്ഞ തവണ ചെയ്തത് ആരംഭ സമയം നോക്കുക അതിനാൽ ടാസ്ക്കുകൾ അഭ്യർത്ഥനയോ കോൾ ഓർഡറോ ആണെന്ന് കരുതുക നമ്മൾ അവയെ ഈ ക്രമത്തിൽ എടുക്കുന്നു നിങ്ങൾ ബി 1 എന്ന് വിളിക്കുന്ന ആദ്യ ബുക്കിംഗിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത് അന്തിമ ഉത്തരത്തിൽ ഒന്നുകിൽ ബി 1 ഉണ്ട് അല്ലെങ്കിൽ ബി 1 ഇല്ലെന്ന് ശ്രദ്ധിക്കുക അതിനാൽ നമ്മൾ രണ്ട് ഓപ്ഷനുകൾ എടുക്കും b1 ഉണ്ട് b1 ഇല്ല ഇപ്പോൾ നമ്മൾ b1 ഇല്ലാതാക്കുകയാണെങ്കിൽ ഉപ പ്രശ്നം b2 മുതൽ ഉൾക്കൊള്ളുന്നു അതിനാൽ നമുക്ക് b മുതൽ b N വരെയുള്ള ഒരു ഉപപ്രശ്നമുണ്ട് നമ്മൾ b 1 നെ ഒഴിവാക്കുകയാണെങ്കിൽ നമ്മൾ b 2 മുതൽ b N വരെ ഉപയോഗിക്കുന്നു അതിനാൽ b 1 ഒഴിവാക്കുക എന്നാൽ അത് വലിച്ചെറിഞ്ഞ് നിങ്ങൾക്ക് ആരംഭിക്കാൻ N മൈനസ് 1 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നടിക്കുക മറുവശത്ത്നമ്മൾ ബി 1 ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ അൽപം ശ്രദ്ധാലുവായിരിക്കണം കാരണം ഇപ്പോൾ ഞാൻ ഈ പ്രത്യേക കാര്യത്തിൽ ബി 1 ഉൾപ്പെടുത്തുകയാണെങ്കിൽ വൈരുദ്ധ്യമുള്ള എന്തെങ്കിലും നമ്മൾ തള്ളിക്കളയണം അതിനാൽ ഗ്രീടി ആയ കേസിൽ നമ്മൾ ചെയ്തതുപോലെ പരസ്പരവിരുദ്ധമായ എല്ലാ അഭ്യർത്ഥനകളും ഇല്ലാതാക്കുന്നു തുടർന്ന് നമുക്ക് മറ്റൊരു ഉപപ്രശ്നമുണ്ട് അത് b 2 മുതൽ b N വരെ ആവശ്യമില്ല അത് b 2 മുതൽ b N വരെയുള്ള ചില സബ് സെറ്റ് ആയിരിക്കും എന്നാൽ ഇപ്പോൾ നമ്മൾ രണ്ട് ഓപ്ഷനുകളും എടുത്തിട്ടുണ്ട് ബി 1 ഉൾപെടുത്തിയും ബി 1 ഒഴിവാക്കിയിരിക്കുന്നു അതിനാൽ നമുക്ക് ബി 1 അല്ലെങ്കിൽ ബി 1 ഇല്ലാതെ ഒരു പരിഹാരം ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ന്യായമാണ് മൂന്നാമത്തെ ഓപ്ഷനുമില്ല പരിഹാരത്തിന് ഒന്നുകിൽ b 1 കൂടാതെ b 1 ഇല്ല നമ്മൾ രണ്ടും വിലയിരുത്താൻ ശ്രമിക്കുന്നു തുടർന്ന് ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നു അതിനാൽ ഇത് ബി 1 ഇല്ലാതെ ബി 1 ഉള്ള രണ്ട് സബ് കേസുകളുമായുള്ള പ്രശ്നത്തിന്റെ ഒരു ഇൻഡക്റ്റീവ് വിഘടനമാണ് ഇതിനെക്കുറിച്ച് ഒരു പ്രവചനവും നടത്തുന്നില്ല നമ്മൾ രണ്ടും വിലയിരുത്തി മികച്ചത് എടുക്കുന്നു ഇത്തരത്തിലുള്ള സ്ട്രാറ്റെജി യഥാർത്ഥത്തിൽ ഓപ്ഷനുകൾ പരിഗണിക്കുന്നുവെന്ന് വാദിക്കാം അതിനാൽ ഏതെങ്കിലും b j യ്ക്ക് b 1 പോലെ പരിഹാരത്തിനും b j ഉണ്ട് അല്ലെങ്കിൽ b j ഇല്ല ഇത് വളരെ വ്യക്തമാണ് N ന് സാധ്യമായ പരിഹാരത്തിന് 2 ഉണ്ട് എനിക്ക് ഒന്നുകിൽ ബി 1 അല്ലെങ്കിൽ ബി 1 ഇല്ല ബി 2 ഉണ്ട് അല്ലെങ്കിൽ ബി 2 ഇല്ല ഗ്രൂപ്പ് ഫോഴ്സ് ആർഗ്യുമെൻറ് ആകാൻ സാധ്യതയുള്ള എല്ലാ സബ് സെറ്റുകളും എനിക്ക് ശ്രമിക്കാംനമ്മൾ സാധ്യമായ എല്ലാ സബ് സെറ്റുകളും പരീക്ഷിക്കുന്നത് ഒഴിവാക്കുക ഇപ്പോൾ ബി 1നായി നമ്മൾ രണ്ട് കേസുകളും വ്യക്തമായി പരിശോധിച്ചു ബി 2 നെക്കുറിച്ച് എല്ലാ കേസുകളും പരിശോധിക്കുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പാക്കാൻ കഴിയുമോ നമുക്ക് ബി 2 നോക്കാം ഇപ്പോൾ ബി 2 ഉം ബി 1 ഉം ഇല്ലെങ്കിൽ ബി 1 ബി 2 അല്ലെങ്കിൽ ഡിസ്ജോയിന്റ് ഇടവേളകളിൽ ഉണ്ടാകുന്ന വൈരുദ്ധ്യങ്ങൾ പിന്നെ ബി 1 തിരഞ്ഞെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നത് സ്വതന്ത്രമാണ് അല്ലെങ്കിൽ ബി 2 തിരഞ്ഞെടുത്താലും ഇല്ലെങ്കിലും ഇതിനർത്ഥം നമ്മൾ' ബി 1 അല്ലെങ്കിൽ ബി 2 തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഫലമായുണ്ടാകുന്ന ഉപ പ്രശ്നം ഇപ്പോഴും ബി 2 തിരഞ്ഞെടുക്കാൻ നമ്മളെ അനുവദിക്കും തുടക്കത്തിൽ ബി 1 അല്ലെങ്കിൽ ബി അല്ല ബി 1 അല്ല അല്ലെങ്കിൽ തുടക്കത്തിൽ ബി 1 അല്ല ഇത് രണ്ട് ഉപപ്രശ്നങ്ങളിലും പരിഗണിക്കപ്പെടും നമ്മൾ ഇത് പരിഹരിക്കുമ്പോൾ നിങ്ങൾ രണ്ട് ചോയിസുകളും എടുക്കും മറുവശത്ത് ബി 1 ഉം ബി 2 ഉം താരതമ്യപ്പെടുത്തുന്നില്ല അതായത് ബി 2 അല്ലെങ്കിൽ ബി യുടെ ബി 1 നിയമങ്ങൾ കാരണം അവ ഓവർലാപ്പ് ചെയ്തു അപ്പോൾ ബി 1 തിരഞ്ഞെടുക്കുമ്പോൾ ബി 2 ഉണ്ടാകാൻ കഴിയില്ല അതിനാൽ ബി 2 അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ബി 1 ഉണ്ടാകൂ ബി 1 തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ബി 2 ആയി പരിഗണിക്കില്ല പക്ഷേ ബി 1 തിരഞ്ഞെടുക്കപ്പെടുന്നില്ല തത്ഫലമായുണ്ടാകുന്ന ഉപപ്രശ്നം ബി 2 മുതൽ ബി എൻ വരെ ലഭിക്കുന്നുവെന്ന് ഓർമ്മിക്കുക അതിനാൽ വീണ്ടും ബി 2 തിരഞ്ഞെടുക്കപ്പെടും അല്ലെങ്കിൽ ഒരു ചോയ്സ് നൽകും അതിനാൽ ബി 2 സാന്നിധ്യത്തിലോ അഭാവത്തിലോ ഉള്ള എല്ലാ ഓപ്ഷനുകളും ബി 1 ആണെന്ന് നമ്മൾ പരിഗണിക്കും അതുപോലെ ബി 1 ബി 2 എന്നിവയുടെ സാന്നിധ്യത്തിലോ അഭാവത്തിലോ ബി 3 പരിഗണിക്കപ്പെടുമെന്നും കൂടുതൽ കാര്യങ്ങൾക്കായി മുന്നോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നും നമുക്ക് വാദിക്കാം പ്രതിജ്ഞാബദ്ധത പൊരുത്തപ്പെടാത്ത ധാരാളം കോമ്പിനേഷനുകൾ നമ്മൾ നിരാകരിക്കുന്നു അല്ലാത്തപക്ഷം നമ്മൾ അന്ധമായി പരിഗണിക്കും നമുക്ക് N ലേക്ക് 2 ലഭിക്കും ഇപ്പോൾ അവ കാര്യക്ഷമമായി വിലയിരുത്തേണ്ടതുണ്ട് പക്ഷേ സാധ്യമായ എല്ലാ ഓപ്ഷനുകളും നമ്മൾ യഥാർത്ഥത്തിൽ പരീക്ഷിക്കുകയാണെന്ന് വിശ്വസിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഗ്രീടി ആയ സ്ട്രാട്ടെജിയിലെന്നപോലെ ചില പ്രാദേശിക മാനദണ്ഡങ്ങൾ ചില ഉപപ്രശ്നങ്ങൾ നിരാകരിക്കുന്നതിന് പര്യാപ്തമാണെന്ന് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നില്ല നമ്മൾ സൃഷ്ടിക്കുന്ന ഉപ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ദൃശ്യമാകുന്നതിൽ നിന്നാണ് കമ്പ്യൂട്ടേഷണൽ വെല്ലുവിളി അതിനാൽ ഒരു ലളിതമായ കേസ് നോക്കാം നമ്മൾ ചുവടെ കാണിച്ചിരിക്കുന്ന ചിത്രമാണെന്ന് കരുതുക അതിനാൽ നമുക്ക് ബി 1 ബി 2 എന്നിവ വൈരുദ്ധ്യത്തിലാണ് പക്ഷേ ബി 1 ബി 2 എന്നിവ വാക്കുകൾക്ക് ശേഷം വരുന്ന എല്ലാ കാര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതായി ശ്രദ്ധിക്കുക അതിനാൽ നമ്മൾ ബി 1 തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ ബി 2 തള്ളിക്കളയുന്നു അതിനാൽ ഉപ പ്രശ്നം നമുക്ക് ലഭിക്കുന്നത് ബി 3 ബി 4 ബി എൻ എന്നിവയാണ് മറുവശത്ത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾ ബി 1 നിരസിക്കുകയാണെങ്കിൽ ബി 2 മുതൽ ബി എൻ വരെ അവശേഷിക്കുന്ന എല്ലാം നിങ്ങൾ പരീക്ഷിക്കും ഇപ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾ ബി 2 മുതൽ ബി എൻ വരെ ശ്രമിക്കേണ്ടതുണ്ട് അതിനാൽ ഇപ്പോൾ നിങ്ങൾ b 2 മുതൽ b N വരെ വരുമ്പോൾ നിങ്ങൾ b 2 നശിപ്പിക്കണം അല്ലെങ്കിൽ നിങ്ങൾ b 2 സൂക്ഷിക്കണം നിങ്ങൾ b 2 ഉപേക്ഷിക്കുകയാണെന്ന് കരുതുക എന്നിട്ട് ഇവിടെ നിന്ന് b 2 നിരസിക്കുമ്പോൾ എന്തുസംഭവിക്കുന്നു ബാക്കിയുള്ള ഭാഗം b 3 മുതൽ b എൻ കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കും ബി 1 തിരഞ്ഞെടുക്കുന്നതിനുള്ള ഡിസ്കിന്റെ പശ്ചാത്തലത്തിൽ ഇതിനകം ഒരിക്കൽ ചോദിച്ച ഒരു ബി 3 മുതൽ ബി എൻ പ്രശ്നം നിങ്ങൾ വീണ്ടും സൃഷ്ടിക്കുന്നു അതിനാൽ നിങ്ങൾ ഇപ്പോൾ ബി 1 തിരഞ്ഞെടുത്തുവെന്ന് നിങ്ങൾക്കറിയാം അതെ ഇല്ല എന്ന് പറയുക നിങ്ങൾ b 1 തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എനിക്ക് b 3 മുതൽ b N വരെയുള്ള ഈ പ്രശ്നം ലഭിക്കുന്നു എന്നിട്ട് ഇല്ല എന്ന് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എനിക്ക് b 2 വീണ്ടും തിരഞ്ഞെടുക്കാനുള്ള അവസരം ലഭിക്കും അതെ ഇല്ല ഇപ്പോൾ ഞാൻ b 2 തിരഞ്ഞെടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ b 2 വീണ്ടും ഉപേക്ഷിക്കുന്നു എനിക്ക് b 3 മുതൽ b N വരെ ലഭിക്കുന്നു അതിനാൽ ഞാൻ ബുദ്ധിപൂർവ്വം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇവിടെയും ഒരിക്കൽ ഇവിടെയും ഈ പ്രശ്നം പരിഹരിക്കും ഈ സമീപനത്തിന്റെ മുഴുവൻ പ്രശ്നവും ഇൻഡക്റ്റീവ് സൊല്യൂഷൻ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഒരേ പ്രശ്നത്തിന് കാരണമാകുമെന്നതാണ് ഒരു ഡിറ്റക്ടീവ് നിർവചനം ഉള്ളതിന്റെ വലിയ നേട്ടങ്ങളിലൊന്ന് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ ആവർത്തനം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആവർത്തന പരിഹാരം എഴുതാൻ കഴിയും അത് പ്രശ്നത്തിന്റെ ഇൻഡക്റ്റീവ് നിർവചനത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ അത് നിഷ്കളങ്കമായി ചെയ്യുകയാണെങ്കിൽ ഓരോ തവണയും നിങ്ങൾ ഇൻഡക്റ്റീവ് ആയി ചെയ്യേണ്ട ഫംഗ്ഷനിൽ വരുമ്പോൾ നിങ്ങൾ അതേ ഫംഗ്ഷനെ ആവർത്തിച്ച് വിളിക്കുന്നു നിങ്ങൾ മുമ്പ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് വളരെ ചെലവേറിയ കാര്യക്ഷമതയാണ് ഈ പാഴാക്കൽ ഒഴിവാക്കുക എന്നതാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗിന്റെ ലക്ഷ്യം അതിനാൽ നമ്മൾ കാണാനിടയുള്ള രണ്ട് സാങ്കേതികതകളുണ്ട് മെമ്മോയിസേഷൻ എന്ന് വിളിക്കുന്ന ഒരു സാങ്കേതികതയുണ്ട് ഇത് ചില ബുദ്ധിപൂർവ്വം ആവർത്തനത്തിലേക്ക് വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു മാർഗമാണ് അതിനാൽ നിങ്ങൾ ഇതേ പ്രവർത്തനത്തെ രണ്ടുതവണ ആവർത്തിച്ച് വിളിക്കരുത് ഈ ആവർത്തന കോളുകൾ എല്ലാം ഒരുമിച്ച് ചെയ്യുന്നത് ഒഴിവാക്കാനുള്ള ഒരു മാർഗമായിരിക്കും ഡൈനാമിക് പ്രോഗ്രാമിംഗ് അതിനാൽ ഉപപ്രശ്നങ്ങൾ നേരിട്ട് പ്രവചിക്കാനും അവ പരിഹരിക്കാനുമുള്ള ഒരു മാർഗമാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഉപപ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയുന്ന ചില ആശ്രയത്വങ്ങളുണ്ടെന്ന് മനസിലാക്കുക ഈ രണ്ട് ടെക്നിക്കുകളും അടുത്ത രണ്ട് പ്രഭാഷണങ്ങളും നോക്കാം കൂടാതെ മെമ്മോയിസേഷന്റെയും ഡൈനാമിക് പ്രോഗ്രാമിന്റെയും ഈ ആശയങ്ങളുമായി പരിചയപ്പെടാൻ നിരവധി ഉദാഹരണങ്ങൾ നോക്കാം അവ അടിസ്ഥാനപരമായി അനുബന്ധ ആവർത്തന സമയത്ത് ഇൻഡക്റ്റീവ് നിർവചനങ്ങൾ നടത്താനുള്ള വഴികളാണ് പരിഹരിക്കാൻ കാര്യക്ഷമമായ നടപ്പാക്കലുകൾ